ഹലോ എല്ലാവർക്കും സ്വാഗതം NPTEL offer ചെയ്യുന്ന ഡിസൈൻ തിങ്കിംഗ് കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻറെ പേര് പ്രൊഫസർ ഡോക്ടർ ബാലരാമ ദുരൈ ഞാനൊരു കൺസൾട്ടൻസ് കൂടിയാണ് അടുത്ത അധ്യാപകൻപ്രൊഫസർ അശ്വിൻ മഹാലിംഗം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ക്ലാസ്സ് എടുക്കുന്നത് സ്ലൈഡ് നോക്കുക എന്താണ് ഡിസൈൻ തിങ്കിങ് ആ സ്ക്രീനിൽ കാണുന്ന മനുഷ്യൻ ആരാണ് ഒന്നാലോചിച്ചു നോക്കൂ പോളിഷ് ബഹിരാകാശ ശാസ്ത്രജ്ഞൻആയ നിക്കോളാസ് കോപ്പർനിക്കസ് ആണ് യൂറോപ്പ് ഭൂഖണ്ഡത്തിൽ വളരെയധികം സംഭാവന ചെയ്ത വ്യക്തിയാണ് അദ്ദേഹമാണ് കണ്ടുപിടിച്ചത്ഈ universeലെ മധ്യത്തിൽ നിൽക്കുന്നത് ഭൂമിയല്ല എന്ന കാര്യം യൂറോപ്പിൽ അങ്ങനെയാണ് മധ്യകാലഘട്ടത്തിലെ ആളുകൾ വിശ്വസിച്ചു കൊണ്ടിരുന്നത് ഭൂമി അല്ല സൂര്യനാണ് മധ്യത്തിൽ എന്നകാര്യം നിക്കോളാസ് കോപ്പർനിക്കസ് കണ്ടുപിടിച്ചു എന്നാൽ ഡിസൈൻ തിങ്കിങ്ങ്ങിൽ നമ്മൾ കോപ്പർനിക്കസ് ചെയ്തതിൻറെ നേരെ വിപരീതമാണ് ചെയ്യുക മനുഷ്യനാണ് ഇവിടെ മധ്യത്തിൽ എല്ലാ ഡിസൈനും മനുഷ്യ കേന്ദ്രീകൃതമാണ് നമ്മൾ ആരംഭിക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ചാണ് ഒരാളെ സഹായിക്കാൻ സാധിക്കുമോ അതിനെപ്പറ്റി ചിന്തിക്കുന്നു 1960 കളിലാണ് ഒരു വിഷയം എന്ന രീതിയിൽ ഡിസൈൻ തിങ്കിങ് ആരംഭിക്കുന്നത് com അവരാണ് ഇതിനെ പ്രശസ്തമാക്കി മാറ്റിയത് ഞാൻ ചില റഫറൻസുകൾ തരുന്നു ചില വീഡിയോസ് തരുന്നു നിങ്ങൾക്ക് ഈ കോഴ്സിന് ഇടയിൽ അത് എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാം IDEO നിന്നുള്ള ചില മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് മറ്റുചില റഫറൻസും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട കാര്യം മനുഷ്യനാണ് ആണ് മധ്യത്തിൽഉള്ളത് ഈ കോഴ്സിന് രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണുള്ളത് ഇത് ബിഗിനേഴ്സ് വേണ്ടിയുള്ള ഒരു കോഴ്സ്ആണ് ഒന്നാമത്തെ കാര്യം ഇതിൽ ഏതൊക്കെ സ്റ്റെപ്പുകൾ അടങ്ങിയിരിക്കുന്നു എന്ന് ഓർത്തെടുക്കുവാൻ പറ്റണം ആലോചനയുടെ പ്രക്രിയയാണ് സ്റ്റെപ്പ്ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ആലോചനയാണ് രണ്ടാമത്തെ കാര്യം ഓരോ സ്റ്റെപ്പുകളും ഇത് ഒന്നാമത്തെ സ്റ്റെപ്പ് ആണ് ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ് ആണ് എന്നിങ്ങനെ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം ഞാൻ ഒരു പശ്ചാത്തലം സെറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് ഈ course ആരംഭിക്കുന്നതിനുമുമ്പ് Ideas നിങ്ങൾ എഴുതി വയ്ക്കുക അതാണ് ഒരു ഒരു ഉൽപന്നത്തിലേക്ക് അല്ലെങ്കിൽ Service യിലേക്ക് നിങ്ങളെ നയിക്കുന്നത് ഒരുപക്ഷേ ഒരു സർവീസ് കാണാൻ പറ്റില്ല എൻറെ കോഴ്സ് അതിനൊരുദാഹരണമാണ് പക്ഷേ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും Product എന്ന നിർവചനത്തിൽ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്നത് തൊടുവാൻ പറ്റുന്നത് ഫീൽ ചെയ്യാൻ പറ്റുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാംഉൾപ്പെടും ഞാൻ ഡിസൈൻ തിങ്കിങ് Process നെ 4 സ്റ്റേജ് ആക്കി മാറ്റുന്നു നമുക്ക് മനുഷ്യനുമായി ബന്ധപ്പെട്ട് ആരംഭിക്കാം ആളുകൾ മറ്റുള്ളവരെ പറ്റി മനസ്സിലാക്കുന്നതാണ്ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ് മറ്റുള്ളവരിൽ എന്തു സംഭവിക്കുന്നു എന്നത് മനസ്സിലാക്കുന്നതാണ്ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് empathy മറ്റുള്ളവരുമായി തന്മയിഭാവം പ്പെടുക അത് അനുഭവിച്ച് മനസ്സിലാക്കുക അവിടെ അവസാനിപ്പിക്കരുത് ആഴത്തിലേക്ക് പോകണം എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക വ്യക്തിക്ക് പ്രത്യേക അനുഭവം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കണം പ്രോബ്ലം അനാലിസിസ് എന്നതിൻറെ വിവിധ ഘട്ടങ്ങൾ പ്രയോജനപ്പെടുത്താം രണ്ടാമത്തെ ഘട്ടമായ വിശകലന ഘട്ടത്തിൽ നമ്മൾ കസ്റ്റമർനെവിശകലനത്തിനു വിധേയമാക്കുന്നു അടുത്തത് മൂന്നാമത്തെ സ്റ്റേജ് ആണ് എന്ത് പ്രശ്നമാണ് പരിഹരിക്കേണ്ടത് എന്ന ആലോചന ആ ഘട്ടത്തിൽവരുന്നു നമ്മൾ പ്രോബ്ലം തീരുമാനിക്കണം നമ്മൾ ആ പ്രോബ്ലംലഘൂകരിക്കാൻ ഉള്ള വഴികളെപ്പറ്റി ആലോചിക്കണം Situation എന്തു തന്നെ ആയിക്കോട്ടെ ഒരു പുതിയ Creationഉണ്ടാവുന്നു അങ്ങനെനമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രോബ്ലം പരിഹരിച്ചു എന്നെ സംബന്ധിച്ച് അവസാനം എല്ലാം കൂടിഒന്നാക്കുക എന്നുള്ളതാണ് ഒരു പാക്കേജ് ആക്കുക അതിനെ concept എന്ന് വിളിക്കാം നിങ്ങൾക്ക് പരിപൂർണ്ണ സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യുക ഒരുപക്ഷേ നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ കണ്ടു പിടിക്കാൻ പറ്റുമായിരിക്കും അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ കണ്ടു പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഡ്രോയിങ് ബോർഡ്ൻറെ അടുത്തേക്ക് പോവുക ഇത് നാല് സ്റ്റെപ്പ് ഉള്ള ഒരു methodology ആണ് ആദ്യം ആളുകൾക്ക് വേണ്ടി ആരംഭിക്കുക പിന്നെ ഒരു പ്രോബ്ലം വരുന്നു അതിൻറെ സൊല്യൂഷൻ പിന്നെ concept ആദ്യം തന്മയിഭാവം പെടൽ പിന്നെ അനാലിസിസ് പിന്നെ ക്രിയേഷൻ ടെസ്റ്റ് ഇതാണ് Design Thinking അടിസ്ഥാനം